ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയം ആരംഭിക്കാൻ പോകുന്നു ഇതിൽ നമ്മൾ പ്രാഥമികമായി വ്യക്തിത്വം എന്താണെന്ന് സംസാരിക്കും വ്യക്തിത്വത്തിന്റെ നിലപാടിനെ അളക്കാനുള്ള സമീപനങ്ങൾ എന്തൊക്കെയാണ് ഏതൊരു വ്യക്തിയുടെയും വ്യക്തിത്വം വിലയിരുത്താൻ ഉപയോഗിക്കുന്ന വിദ്യകൾ എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കും പൊതുവേ ആളുകൾ എല്ലായ്പ്പോഴും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാവുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രൊഫൈൽ സൃഷ്ടിക്കുമ്പോൾ മനശാസ്ത്രം അതിനെ വിവരിക്കുന്ന രീതി ശരിക്കും ശാസ്ത്രീയമാണോ എന്നതൊക്കെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതിനാൽ നിർവചനത്തിലേക്ക് വരുമ്പോൾ പ്രശസ്തനായ മനശാസ്ത്രജ്ഞൻ ആൾപോർട്ട് വ്യക്തിക്കുള്ളിലെ ചലനാത്മക ഘടനയായിട്ടാണ് വ്യക്തിത്വത്തെ നിർവചിച്ചത് അതിൽ പരിസ്ഥിതിയോടുള്ള അവന്റെ അല്ലെങ്കിൽ അവളുടെ അതുല്യമായ ക്രമീകരണം നിർണ്ണയിക്കുന്ന മാനസിക ശാരീരിക സംവിധാനങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ സൈക്കോഫിസിക്കൽ സിസ്റ്റത്തിലുള്ള ചുറ്റുപാടുകളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും സിസ്റ്റങ്ങളുടെ ഈ ഘടകങ്ങളെല്ലാം എത്രത്തോളം ചലനാത്മകമായി ക്രമീകരിച്ചിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്നു ഘടനയുടെ ഈ ചലനാത്മകതയാണ് നിങ്ങളെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് മാറ്റുന്നതിനും ഭേദപ്പെടുത്തുന്നതിനും പൊരുത്തപ്പെടുന്നതിനും പ്രാപ്തമാക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്ന സ്വഭാവസവിശേഷതകളുടെ മുഴുവൻ ശ്രേണിയും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതായത് ഈ വ്യക്തി അടിസ്ഥാനപരമായി 1 2 3 സവിശേഷതകളും നിങ്ങൾക്ക് വരയ്ക്കാനാകുന്ന സവിശേഷതകളുടെ എണ്ണവുമാണെന്ന് മനസ്സിലാക്കും എന്നാൽ ഈ വ്യക്തി അടിസ്ഥാനപരമായി സാധാരണയായി സംഭവിക്കാത്ത ഈ ഒരൊറ്റ സവിശേഷത ആണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല അതിനാൽ ഏതൊരു വ്യക്തിയുടെയും വ്യക്തിത്വം മനസിലാക്കാൻ മനശാസ്ത്രജ്ഞർ സ്വീകരിച്ച സമീപനങ്ങൾ നമ്മൾ മനസ്സിലാക്കും നാല് പ്രധാന സമീപനങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അഞ്ച് ആക്കാം തരവും സ്വഭാവവും Type Trait ഞാൻ അവയെ ഒരൊറ്റ സമീപനമായി സംയോജിപ്പിക്കുന്നു മിക്ക പുസ്തകങ്ങളിലും ടൈപ്പ് അപ്രോച്ചും ട്രെയ്റ്റ് അപ്പ്രോച്ചും വേവ്വേറെയായിട്ടാണ് ഇപ്പോൾ വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം സൌകര്യാർത്ഥം ഞാൻ ടൈപ്പ് അപ്രോച്ചും ട്രെയ്റ്റ് അപ്പ്രോച്ചും ഒരുമിച്ച് ചേർക്കുന്നു ചലനാത്മക സമീപനം അതിൽ സൈക്കോ അനാലിസിസിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അവർ എങ്ങനെയാണ് വ്യക്തിത്വത്തെ നിർവചിക്കാൻ ശ്രമിക്കുന്നത് പഠനവും പെരുമാറ്റ സമീപനവും Learning Behavioural Approach ഒടുവിൽ മാനവിക സമീപനവും അതിനാൽ ഈ നാല് സമീപനങ്ങൾ വ്യക്തിത്വം മനസ്സിലാക്കാൻ നമ്മൾ എടുക്കും നമ്മൾ ടൈപ്പ് ട്രെയ്റ്റ് അപ്രോച്ചുകളെ കുറിച്ച് കൂടുതൽ സംക്ഷിപ്തമായി സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു പ്രത്യേകിച്ചും നമ്മൾ ടൈപ്പ് സമീപനത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയും ഇത് ആദ്യകാല നിർദ്ദേശങ്ങളാണെന്നും ഇത് ആധുനിക നിർദ്ദേശങ്ങളാണെന്നും അതിനാൽ ഈ സമീപനത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ അവയ്ക്ക് തുല്ല്യ സമയം ലഭിച്ചേക്കില്ല ടൈപ്പ് സമീപനത്തിലേക്ക് വരുകയാണെങ്കിൽ ഹിപ്പോക്രാറ്റസ് 400 ബിസിയിൽ നിർദ്ദേശിച്ച രീതിയാണ് ആദ്യകാല സമീപനം അതിൽ അദ്ദേഹം നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളെ നാല് ഗ്രൂപ്പുകളായി വിഭജിക്കാമെന്ന് പറഞ്ഞു സാൻഗ്വിൻ തരം മെലങ്കോളിക് തരം കോളറിക് തരം ഫ്ലെഗ്മാറ്റിക് തരം എന്നിങ്ങനെ വിഭജിക്കുകയും ഓരോ തരങ്ങൾക്കും അദ്ദേഹം ചില പ്രത്യേകതകൾ നൽകുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും സാൻഗ്വിൻ തരമാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി സന്തോഷവാനും വളരെ സജീവവും ആത്മവിശ്വാസമുള്ളവനും ആയിരിക്കും മെലങ്കോളിക് തരത്തിലുള്ള ആളുകൾ വലിയ തോതിൽ വിഷാദത്തിലായിരിക്കും കോളറിക് തരത്തിൽ ഉള്ള ആളുകൾ പെട്ടെന്നു കുപിതരാകുന്ന സ്വഭാവമുള്ളവരും ഫ്ലെഗ്മാറ്റിക് തരത്തിൽ ഉള്ള ആളുകൾ ശാന്തരും മന്ദഗതിയിലുള്ളവരുമായിരിക്കും പിന്നീട് ഷെൽഡന്റെ വർഗ്ഗീകരണം വന്നു ഷെൽഡൻ അടിസ്ഥാനപരമായി ശരീരത്തിന്റെ ഭൌതിക ഘടന നോക്കി തുടർന്ന് അദ്ദേഹം ആ സ്വഭാവങ്ങളുമായി ചില പ്രത്യേകതകൾ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു അതിനാൽ അദ്ദേഹം ആളുകളെ എൻഡോമോർഫ് എക്ടോമോർഫ് മെസോമോർഫ് എന്നീ മൂന്ന് ഗ്രൂപ്പുകളായി വിഭജിച്ചു എൻഡോമോർഫിക് ചെറുതും തടിച്ചവരുമാണ് എക്ടോമോർഫിക് ഉയരമുള്ളവരും മെലിഞ്ഞവരും ആണ് മെസോമോർഫിക് ഭാരമുള്ളവരും ഊക്കുള്ളവരുമാണ് തുടർന്ന് അദ്ദേഹം ഈ തരത്തിലുള്ള ശരീരഘടന ചില സവിശേഷതകളുമായി ബന്ധപ്പെടുത്തി അതിൽ എൻഡോമോർഫ് അർത്ഥമാക്കുന്നത് ചെറിയതും തടിച്ചവരുമാണെന്നാണ് അവർ വളരെ വിശ്രമിക്കുന്ന ആളുകളാണെന്നും അവർ വളരെ സാമൂഹിക സ്വഭാവമുള്ളവരുമാണെന്നും അദ്ദേഹം പറഞ്ഞു എക്ടോമോർഫ് ആയ ആളുകൾ അർത്ഥമാക്കുന്നത് അവർ ഉയരമുള്ളവരും മെലിഞ്ഞവരുമാണ് അവർ സംയമനം പാലിക്കുന്നവരും വളരെ ആത്മബോധമുള്ളവരുമാണ് മെസോമോർഫ്സ് ഭാരമുള്ളവരും ഊക്കുള്ളവരുമായ ആളുകൾ ആണ് അവർ ശബ്ദമുണ്ടാക്കും അവർ ആക്രമണാത്മകമായിരിക്കും പക്ഷേ അവർ വളരെ സജീവമായ പ്രകൃതമുള്ളവരായിരിക്കും ആധുനിക സൈക്കോളജിയിൽ നിങ്ങൾ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഷെൽഡന്റെ വർഗ്ഗീകരണത്തിനുള്ള സ്ഥലം കണ്ടെത്താനാകില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ പക്ഷേ മനശാസ്ത്രത്തിന്റെ ആമുഖത്തെ കുറിച്ചുള്ള മിക്ക പുസ്തകങ്ങളും നിങ്ങൾ നോക്കിയാൽ ഇവ ആദ്യകാല സമീപനങ്ങളായ ഈ രണ്ട് തരം സമീപനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം വളരെക്കാലത്തിനുശേഷം ഐസെൻക്കിന്റെ വർഗ്ഗീകരണം നിലവിൽ വന്നു അതിൽ ഐസെൻക് x y ആക്സിസിൽ ആളുകളെ വിഭജിച്ചു അതിൽ 3 അളവുകൾ ഉണ്ടായിരുന്നു ഇന്ട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും Introvert Extrovert സ്റ്റേബിളുകളും ന്യൂറോട്ടിക്സും സൈക്കോട്ടിക്സും ആധുനിക കാലത്ത് ഒരു തരം സമീപനം കൂടി വന്നു അത് തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരായ ഫ്രീഡ്മാനും റേ റോസൻമാനും കൊണ്ട് വന്നത് ആയിരുന്നു അപ്പോൾ അവർ ടൈപ്പ് എ ടൈപ്പ് ബി ആളുകളുടെ ആശയവുമായി മുന്നോട്ടു വന്നു റോസൻമാനും ഫ്രീഡ്മാനും അടിസ്ഥാനപരമായി ചില ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾ കാരണം അവരുടെ ക്ലിനിക് സന്ദർശിച്ച രോഗികളിൽ നിന്നാണ് ഈ ടൈപ്പ് സമീപനം അല്ലെങ്കിൽ അവരുടെ സിദ്ധാന്തം പുറത്ത് കൊണ്ട് വന്നത് അവർ ടൈപ്പ് എ ഉള്ളവർ അടിസ്ഥാനപരമായി മത്സരസ്വഭാവമുള്ള ആളുകളാണ് എന്ന് കണ്ടെത്തി അവർ വളരെ സജീവവും ആക്രമണാത്മക സ്വഭാവം ഉള്ളവരും വിശ്രമമില്ലാത്തവരുമാണ് ഇതിന് നേർ വിപരീതമായ ആളുകളാണ് ടൈപ്പ് ബി അതിനാൽ ഈ നാലും പഴയ രണ്ടും പുതിയ രണ്ടും വ്യക്തികളെ മനസ്സിലാക്കുന്നതിനുള്ള ഇത്തരത്തിലുള്ള സമീപനങ്ങളെ ടൈപ്പ് സമീപനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഇനി നമ്മൾ സ്വഭാവ സമീപനത്തിലേക്ക് വരുന്നു ഓൾപോർട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നിർവചനം പരാമർശിച്ചിരുന്നു അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ പരിശോധിക്കുകയും ഇംഗ്ലീഷിലെ ട്രൈറ്റ് ലൈക്ക് തരത്തിൽ പെട്ട പദങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു ട്രൈറ്റ് ആയി കണക്കാക്കാവുന്ന 18000 വ്യത്യസ്ത പദങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം ചെയ്തത് എന്തെന്നാൽ അദ്ദേഹം സ്വഭാവങ്ങൾ കാർഡിനൽ ട്രെയ്റ്റ് സെൻട്രൽ ട്രെയ്റ്റ് സെക്കൻഡറി ട്രെയ്റ്റ് എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായി തരം തിരിച്ചു അതിനാൽ ഓൾപോർട്ടിന്റെ അഭിപ്രായത്തിൽ കാർഡിനൽ ആയ ചില സ്വഭാവങ്ങളുണ്ട് അവർ വളരെ പ്രബലരാണ് എന്നാണ് അർത്ഥമാക്കുന്നത് ഗാന്ധിയൻ മച്ചിവെല്ലിയൻ പോലെയുള്ള ഒരു പ്രത്യേക സ്വഭാവം ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ ഗാന്ധിയൻ എന്നാൽ ഗാന്ധിയെ പോലെ അതിനാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മുഴുവൻ ദൈർഘ്യത്തെയും അടിസ്ഥാനപരമായി വിവരിക്കുന്ന ഒരൊറ്റ സ്വഭാവം അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങളുടെ ഒരു ചെറിയ കൂട്ടം ആ സ്വഭാവങ്ങളെ കാർഡിനൽ സ്വഭാവവിശേഷങ്ങൾ എന്ന് വിളിക്കുന്നു തുടർന്ന് സെൻട്രൽ സ്വഭാവവിശേഷങ്ങൾ വരുന്നു ഇവ അടിസ്ഥാനപരമായി ഒരാളുടെ പെരുമാറ്റത്തെ ഒരു പരിധിവരെ വിശേഷിപ്പിക്കുന്ന സ്വഭാവവിശേഷങ്ങളാണ് എന്നാൽ കാർഡിനൽ സ്വഭാവം പോലെ ഇവ പൂർണ്ണമല്ല വ്യക്തികൾക്ക് അത്തരം 10 അല്ലെങ്കിൽ 12 ൽ കൂടുതൽ സെൻട്രൽ സ്വഭാവം ഉള്ളത് അപൂർവമാണ് അതിനാൽ ഒരു പ്രത്യേക വ്യക്തിയുടെ സ്വഭാവഗുണങ്ങളുടെ പര്യവേക്ഷണ കേന്ദ്രമാണ് സെൻട്രൽ സ്വഭാവമെങ്കിൽ നിങ്ങൾക്ക് പരമാവധി പത്ത് മുതൽ പന്ത്രണ്ട് സെൻട്രൽ സ്വഭാവം ഉണ്ടെന്ന് ഊഹിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രധാന സ്വഭാവഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാകും ഓൾപോർട്ടിന്റെ അഭിപ്രായത്തിൽ സ്വഭാവത്തിന്റെ മൂന്നാമത്തെ വിഭാഗമാണ് സെക്കൻഡറി സ്വഭാവവിശേഷങ്ങൾ അവ സ്വാധീനമുള്ള സ്വഭാവവിശേഷങ്ങളാണ് എന്നാൽ ഒരു ചെറിയ പരിധിക്കുള്ളിൽ മാത്രം ഈ മൂന്ന് സ്വഭാവങ്ങളും അടിസ്ഥാനപരമായി മനുഷ്യന്റെ മാനസിക ചരിത്രമാണ് ജൂലിയൻ റോട്ടർ നൽകിയ മറ്റൊരു ആശയം മനശാസ്ത്രത്തിൽ വന്നു റോട്ടർ അടിസ്ഥാനപരമായി ഒരു ഒറ്റ സ്വഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവിടെ അദ്ദേഹം നിയന്ത്രണത്തിന്റെ സ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചു നിയന്ത്രണത്തിന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ആളുകൾക്ക് ഒന്നുകിൽ ഒരു ആന്തരിക നിയന്ത്രണ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു ബാഹ്യ നിയന്ത്രണ സ്ഥാനമുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ആശയം നിയന്ത്രണത്തിന്റെ സ്ഥാനം നിങ്ങൾ മനശാസ്ത്രത്തിലെ സാഹിത്യം നോക്കിയാൽ മനശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ച വിഷയങ്ങളിൽ ഒന്നാണിതെന്ന് നമ്മൾ കണ്ടെത്തും ഒരു സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യുന്ന രീതി ഒരു സ്ട്രെസ്സിനു മേലുള്ള സഹിഷ്ണുത സ്ട്രെസ്സ് നിറഞ്ഞ ഒരു സാഹചര്യത്തിന്റെ അനന്തരഫലങ്ങളെ ഒരാൾ എങ്ങനെ നേരിടുന്നു എന്നിവ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് നിയന്ത്രണ സ്ഥാനം സംബന്ധിച്ച് ഇവയെല്ലാം പരിശോധിച്ചിട്ടുണ്ട് നിയന്ത്രണത്തിന്റെ ആന്തരിക സ്ഥാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിയന്ത്രണത്തിന്റെ ബാഹ്യ സ്ഥാനം നിങ്ങൾക്ക് മികച്ചതാണെന്ന് ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായും കാറ്റെൽ ഈ പ്രശസ്തമായ 16 ഘടക വ്യക്തിത്വം നൽകി ഈ മുഴുവൻ സെറ്റും നോക്കിയാൽ ദ്വൈധ്രുവ കോമ്പിനേഷനുകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ കാറ്റൽ നിർദ്ദേശിച്ച 16 ഘടകങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിലേക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കുക അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പ്രാഥമിക ഘടകങ്ങൾ നിങ്ങൾക്ക് കാണാം തുടർന്ന് നിങ്ങൾ രണ്ട് അറ്റങ്ങൾ അറിയണം ഒന്ന് താഴ്ന്ന ശ്രേണി മറ്റൊന്ന് ഉയർന്ന ശ്രേണി അതിനാൽ ഊഷ്മളത ന്യായവാദം വൈകാരികത സ്ഥിരത ആധിപത്യം ജീവൻ ഭരണ ബോധം സാമൂഹിക ധൈര്യം സംവേദനക്ഷമത ജാഗ്രത അമൂർത്തത സ്വകാര്യത ധാരണ മാറ്റത്തിനുള്ള തുറന്ന മനസ്സ് ആത്മവിശ്വാസം പരിപൂർണ്ണത ടെൻഷൻ കാറ്റൽ സംസാരിക്കുന്ന 16 വ്യത്യസ്ത ഘടകങ്ങളാണ് ഇവ ഇപ്പോൾ കാറ്റൽ ഒന്നുകിൽ ഒരു പ്രത്യേക സ്വഭാവത്തിൽ താഴ്ന്ന ആളുകളോ അല്ലെങ്കിൽ അതിൽ ഉയർന്നവരോ ആയവരെ കുറിച്ച് പൂർണ്ണമായ വിവരണം നൽകുന്നു ഉദാഹരണത്തിന് നിങ്ങൾ വളരെ ഊഷ്മളതയുള്ള ആളാണെങ്കിൽ നിങ്ങൾ പ്രസന്നമായ പ്രകൃതമുള്ളവരായിരിക്കുമെന്നും മറ്റുള്ളവരോട് ശ്രദ്ധാലുവായിരിക്കുമെന്നും ദയയുള്ളവരും എളുപ്പത്തിൽ പങ്കെടുക്കുന്നവരുമാണെന്നും നിങ്ങൾ ആളുകളെ ഇഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ഊഷ്മളത കുറവാണെങ്കിൽ നിങ്ങൾ വ്യക്തിതാത്പര്യമില്ലാത്തവനും അകലം പാലിക്കുന്നവനും ശാന്തമായവനും മിണ്ടാട്ടമില്ലാത്തവനും അകന്ന് നിൽക്കുന്നവനും ഔപചാരികത പാലിക്കുന്നവനും തണുപ്പനുമായിരിക്കും നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സവിശേഷതകൾ ഇവയാണ് എന്നിട്ട് വളരെ മനോഹരമായി കാറ്റൽ പറയുന്നു നിങ്ങൾ ചില സവിശേഷതകളിൽ ഉയർന്നവരാണെങ്കിൽ മറ്റ് ചില സവിശേഷതകളിൽ നിങ്ങൾ കുറവുള്ളവരായിരിക്കും അതിനാൽ അദ്ദേഹം 16 വ്യത്യസ്ത ഘടകങ്ങളുടെ വളരെ നല്ല മിശ്രിതവും പൊരുത്തവും നൽകുന്നു കാരണം നമ്മൾ ഈ സമീപനത്തെ സംക്ഷിപ്തമായിട്ടേ നോക്കുകയൊള്ളു അദ്ദേഹം സംസാരിക്കുന്ന 16 സവിശേഷതകളും വിവരണവും നമ്മൾ നോക്കുകയില്ല അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഫ്രെയിം വർക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ സ്വഭാവ സവിശേഷതയിലെ തരം നീക്കംചെയ്തിട്ടുണ്ട് നാല് പ്രധാന ഫ്രെയിം വർക്കുകൾ നമ്മൾ നോക്കുന്നതാണ് സൈക്കോഅനലിറ്റിക് ഫ്രെയിം വർക്ക് നമ്മൾ നോക്കും അവിടെ നമ്മൾ ഫ്രോയിഡ് എറിക്സൺ യംഗ് അഡ്ലർ പിന്നെ തീർച്ചയായും കാരെൻ ഹോണി എന്നിവരെക്കുറിച്ച് സംസാരിക്കും അതുപോലെ പെരുമാറ്റ ചട്ടക്കൂടുകളും നമ്മൾ നോക്കും പ്രാഥമികമായി നമ്മൾ സ്കിന്നറുടെയും ബന്ദുരയുടെയും രചനകൾ നോക്കും എങ്ങനെ അവരുടെ രചനകൾ മനുഷ്യന്റെ വ്യക്തിത്വത്തെ വിവരിക്കുന്നു എന്നത് വ്യക്തിത്വം മനസ്സിലാക്കാൻ നമുക്ക് എങ്ങനെയാണ് മാനവിക സമീപനം ഉപയോഗിക്കാനാകുക നമ്മൾ മാസ്ലോയുടെയും റോജേഴ്സിന്റെയും ആശയം കടമെടുക്കുകയും തുടർന്ന് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ സ്വീകരിച്ച 3 പ്രധാന ഫ്രെയിം വർക്കുകൾ ചർച്ച ചെയ്ത ശേഷം നമ്മൾ ഇന്ത്യൻ ആശയവും നോക്കും ത്രിഗുണയെക്കുറിച്ചുള്ള ഇന്ത്യൻ സങ്കൽപ്പവും വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള സാഹചര്യമാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നതെന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനും ശ്രമിക്കും അതിനാൽ സൈക്കോഅനാലിറ്റിക് സമീപനത്തിലേക്ക് വരുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തെ ആധുനിക മനശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുകയും പിന്നീട് അഡ്ലർ ജംഗ് ഹോണി എറിക്സൺ എന്നിവർ അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തു നമ്മൾ ഈ സിദ്ധാന്തങ്ങളെല്ലാം നോക്കും ഈ സൈക്കോഅനാലിസ്റ്റുകളെ വിശകലനം ചെയ്യും എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് അവർ നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ ജീവിതത്തിൽ പെരുമാറുന്ന രീതിയിൽ ആവുന്നത് അപ്പോൾ മനശാസ്ത്രം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് അടിസ്ഥാനപരമായി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ആദ്യം അദ്ദേഹം മനസ്സിന്റെ ഭൂപ്രകൃതി നൽകി അവിടെ അദ്ദേഹം ബോധാവസ്ഥയേയും അബോധാവസ്ഥയേയും പൂർവ്വ ബോധാവസ്ഥയേയും കുറിച്ച് സംസാരിച്ചു കൂടാതെ അദ്ദേഹം പ്രശസ്തമായ ഐസ്ബെർഗ് സിദ്ധാന്തം അവതരിപ്പിച്ചു അവിടെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ മാനസിക ശേഷിയുടെ ഏകദേശം 910 അളവ് അബോധാവസ്ഥയിൽ തുടരുന്നു നമുക്ക് അതിനെക്കുറിച്ച് അറിയുകയില്ല നമ്മുടെ മാനസിക ശേഷിയുടെ പത്തിലൊന്ന് മാത്രമേ നമുക്ക് ബോധപൂർവ്വം ലഭ്യമായിട്ടുള്ളൂ അബോധാവസ്ഥയ്ക്കും ബോധപൂർവ്വമായ അവസ്ഥയ്ക്കും ഇടയിൽ അദ്ദേഹം നേർത്ത രേഖ വരച്ചു അവിടെയാണ് അദ്ദേഹം പൂർവ്വ ബോധാവസ്ഥ നിൽക്കുന്നതെന്ന് പറഞ്ഞത് അതിന് അദ്ദേഹം രസകരമായ ഉദാഹരണങ്ങൾ നൽകുകയും ചെയ്തു ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ അബോധാവസ്ഥയിലുള്ള ഘടകങ്ങൾ നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കേണ്ടിവന്നാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അദ്ദേഹം രണ്ട് രീതികൾ മാത്രമാണ് നൽകിയത് തീർച്ചയായും ഒന്ന് അദ്ദേഹത്തിന്റെ ഹിപ്നോട്ടിസത്തിന്റെ രീതിയായിരുന്നു അതിലൂടെ നിങ്ങൾക്ക് മറ്റ് വ്യക്തിയെ ഹിപ്നോട്ടൈസ് ചെയ്ത് തീവ്രമായ അബോധാവസ്ഥയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തേത് നിങ്ങൾക്ക് വ്യക്തിയുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഫ്രോയിഡ് നിർദ്ദേശിച്ചു സ്വപ്നങ്ങൾ അബോധമനസ്സിലേക്കുള്ള വഴിയാണെന്ന് അദ്ദേഹം പറഞ്ഞു അബോധാവസ്ഥയിലുള്ള ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാൻ ഒരു വ്യക്തിയുടെ സ്വപ്നത്തിന്റെ ഉള്ളടക്കം എങ്ങനെ വിശകലനം ചെയ്യാമെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം വിപുലമായ വിശദീകരണം നൽകുന്നു ബോധമനസ്സ് എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ബോധപൂർവ്വം അറിയാം പിന്നീട് അദ്ദേഹം വളരെ രസകരമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ അവബോധത്തിൽ നിന്ന് കടന്നുപോകുകയും കുറച്ച് സമയത്തേക്ക് പൂർവ്വബോധാവസ്ഥയിൽ തുടരുകയും ചെയ്യുമെന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം സ്ലിപ് ഓഫ് പെൻ സ്ലിപ് ഓഫ് ടങ് തുടങ്ങിയ പ്രക്രിയകളുണ്ടെന്ന് വളരെ മനോഹരമായി പ്രകടിപ്പിച്ചു നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യം പറയാൻ ഉദ്ദേശിച്ചു നിങ്ങൾക്ക് നാവിൽ വളച്ചൊടിക്കൽ ഉണ്ടായിരുന്നു നിങ്ങൾ തെറ്റായി ഉച്ചരിക്കുകയും മറ്റെന്തെങ്കിലും പറയുകയും ചെയ്തു നാവിലെ തിരിവ് അടിസ്ഥാനപരമായി നിങ്ങളുടെ അബോധാവസ്ഥയിൽ എന്തായിരുന്നുവെന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് ഫ്രോയിഡ് പറയുന്നു അതുപോലെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പേന സ്ലിപ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ആന്തരികമായി എന്താണ് ചിന്തിക്കുന്നതെന്ന് അതിൽ പ്രതിഫലിക്കുന്നു അതിനാൽ അദ്ദേഹം ഈ വിഭജിക്കപ്പെട്ട ഭൂപ്രകൃതിയെക്കുറിച്ച് സംസാരിച്ചു ബോധാവസ്ഥയേയും അബോധാവസ്ഥയേയും പൂർവ്വബോധാവസ്ഥയേയും കുറിച്ച് പിന്നീട് അദ്ദേഹം ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്നിവയെക്കുറിച്ചും സംസാരിച്ച് കൊണ്ട് മനസ്സിന്റെ ഒരു വിഭജിച്ച ഘടനയുമായി മുന്നോട്ട് വന്നു ഈ 3 കാര്യങ്ങൾ 3 വ്യത്യസ്ത തത്വങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ആശയം ഇഡ് ആനന്ദ തത്വത്തിലും ഈഗോ യാഥാർത്ഥ്യ തത്വത്തിലും സൂപ്പർ ഈഗോ ധാർമ്മിക തത്വത്തിലും പ്രവർത്തിക്കുന്നു അതിനാൽ ഫ്രോയിഡിയൻ വീക്ഷണം എന്തെന്നാൽ നമുക്കെല്ലാവർക്കും ഉടനടി തൃപ്തികരമായ ആവശ്യകതയാൽ നയിക്കപ്പെടുന്ന ചില ആഗ്രഹങ്ങളുണ്ട് അതിനാൽ അവ ഇഡ് രൂപീകരിക്കുന്നു കാരണം ഇത് ആനന്ദ തത്വത്തിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ചില സമയങ്ങളിൽ നിങ്ങൾ അങ്ങേയറ്റം ആവശ്യപ്പെടുന്നവരാവുന്നു എനിക്ക് ഇത് ഇഷ്ടമാണ് എനിക്ക് ഇത് വേണം എനിക്ക് ഇത് ലഭിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഇവ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വഴികളും മാർഗങ്ങളും ചിന്തിക്കുന്നില്ല എനിക്ക് അത് വേണമെന്ന് കണ്ടെത്തുന്നതിലൂടെ അത് ആവശ്യത്തെ ലളിതമാക്കും നിങ്ങൾക്ക് അത് ലഭിച്ചാൽ നിങ്ങൾ സന്തുഷ്ടരാവും അതിനാൽ ആനന്ദ തത്വം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മറുവശത്ത് സൂപ്പർ ഈഗോ അത് ഇപ്പോൾ നിങ്ങൾക്ക് ധാർമ്മിക ഭരണം നൽകുന്നു ഇത് ധാർമ്മിക തത്വങ്ങളിൽ പ്രവർത്തിക്കുന്നു അതിനാൽ നിങ്ങളുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്താൻ സേവനമനുഷ്ഠിച്ച നിങ്ങളുടെ കുടുംബത്തിലൂടെയും സമൂഹത്തിലൂടെയും വിവിധ ഏജന്റുമാർ മുഖേനയുമുള്ള നിങ്ങളുടെ വളർത്തൽ സമ്പ്രദായങ്ങളിൽ നിങ്ങൾ പഠിച്ച മൂല്യങ്ങളും അവർ നിങ്ങളോട് ചെയ്യാവുന്നതും ചെയ്യരുതാത്തതും പറയുന്നു അതിനാൽ നിങ്ങൾ പഠിച്ച സമൂഹത്തിൽ ചെയ്യാവുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ അവ ലജ്ജ കുറ്റബോധം തുടങ്ങിയ വികാരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനമാണ് അവ അധാർമികമാണോ ധാർമ്മികമാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ജഡ്ജ്മെന്റൽ കാര്യങ്ങളാണ് അതിനാൽ ഒരു നിശ്ചിത സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട് നിങ്ങളുടെ ഇഡ് നിങ്ങൾക്ക് അത് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് അത് ലഭിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് നിർദ്ദേശിക്കുന്നു നിങ്ങളുടെ സൂപ്പർ ഈഗോ അത് ഉണ്ടാവുന്നത് നല്ലതാണോ അനുയോജ്യമാണോ അത് കൈവശം വയ്ക്കുന്നത് ന്യായമാണോ ധാർമ്മികമായി അത് എത്രത്തോളം ശരിയാണ് തുടങ്ങിയവ നിങ്ങളോട് പറയാൻ തുടങ്ങുന്നു ഇഡും സൂപ്പർ ഇഗോയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഉത്തരവാദിത്തമുള്ളത് യാഥാർത്ഥ്യ തത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈഗൊക്കാണ് ഫ്രോയിഡിയൻ വിശകലനം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഡോ അല്ലെങ്കിൽ സൂപ്പർ ഈഗോയോ മാത്രമായിട്ട് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് ഞാൻ ആ മേഖലയിലേക്ക് കടക്കുന്നില്ല പക്ഷേ നിങ്ങൾ സൈക്കോ അനാലിസിസിന്റെ മുഴുവൻ കഥയും ക്ലിനിക്കൽ ഡയഗ്നോസിസ് മേഖലകളുടെ വിശദീകരണവും നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് ഘടനകളിൽ ഒന്നിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് അല്ലെങ്കിൽ ഇവയിലൊന്ന് കൂടുതൽ തൃപ്തിപ്പെടുത്തുന്നത് ഗുരുതരമായ പ്രശ്നത്തിന് കാരണമാകും അതിനാൽ ഈഗോ ഇപ്പോൾ യാഥാർത്ഥ്യവുമായി സമ്പർക്കം പുലർത്തേണ്ടതുണ്ട് ഈഗോ തൃപ്തികരമായ സമവാക്യവും ഭാഗികമായി ഉണ്ടാക്കേണ്ടതുണ്ട് ഇഡിന്റെയും സൂപ്പർ ഈഗോയുടെയും ആവശ്യകതകളിൽ നിന്ന് അത് ഉരുത്തിരിയണം അതിന് ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതുണ്ട് പിന്നീട് ഫ്രോയ്ഡ് മുന്നോട്ടുവച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും വിവാദപരവും തീർച്ചയായും ആഘോഷിക്കപ്പെട്ടതുമായ ആശയം മാനസിക ലൈംഗിക വളർച്ചയുടെ ഘട്ടങ്ങൾ ആണ് മനുഷ്യജീവിതം മൊത്തത്തിൽ അഞ്ച് വ്യത്യസ്ത ഘട്ടങ്ങളായി വിഭജിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു ജനനം മുതൽ 2 വയസ്സുവരെയുള്ള ആദ്യ ഘട്ടത്തെ അദ്ദേഹം വിളിച്ചത് ഓറൽ സ്റ്റേജ് എന്നാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം 2 മുതൽ 3 വയസ്സുവരെയുള്ളതിനെ എയ്നൾ സ്റ്റേജ് എന്ന് വിളിക്കുന്നു 3 മുതൽ 5 വർഷം വരെയുള്ള മൂന്നാമത്തെ ഘട്ടമാണ് ഫാലിക് സ്റ്റേജ് പിന്നീട് താരതമ്യേന 5 മുതൽ 11 വയസ്സ് വരെയുള്ള നീണ്ട ഘട്ടം ലേറ്റൻസി സ്റ്റേജും പതിനൊന്ന് വയസ്സുമുതൽ ഉള്ളത് ജെനിറ്റൽ സ്റ്റേജുമാണ് ഇപ്പോൾ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ജീവിതത്തിന്റെ ആദ്യ മൂന്ന് ഘട്ടങ്ങൾ വ്യക്തിയുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നതിന് വളരെ നിർണായകമാണ് അതായത് 0 മുതൽ 5 വയസ്സ് വരെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമുക്ക് ശരീരത്തിൽ കാമോദ്ദീപകമായ മേഖലയുണ്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഓറൽ ഘട്ടത്തിൽ കാമോദ്ദീപകമായ മേഖല ഓറൽ കാവിറ്റിയിൽ ആണുള്ളത് അതിനാൽ 0 മുതൽ 2 വയസ്സുവരെയുള്ള കുട്ടികൾ സാധാരണയായി വസ്തുക്കൾ പിടിച്ച് വായിൽ ഇടാൻ ഇഷ്ടപ്പെടുന്നു കാരണം പരമാവധി സംവേദനക്ഷമത കാമോദ്ദീപകമായ മേഖലയിൽ നിന്ന് മാത്രമേ പുറത്തെടുക്കാൻ കഴിയൂ അത് ഇപ്പോൾ ഓറൽ കാവിറ്റിയിലാണ് അപ്പോൾ രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെ ഇത് അടിസ്ഥാനപരമായി എയ്നൾ ഘട്ടമാണ് ഇത് താരതമ്യേന കുറഞ്ഞ കാലയളവാണ് കാമോദ്ദീപകമായ മേഖല മലദ്വാരത്തിലേക്ക് മാറുന്നു അതിനാൽ കുട്ടി ചെയ്യുന്നത് അത് ഒന്നുകിൽ മലം പിടിച്ചുവെയ്ക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ വിസർജ്ജനം പുറന്തള്ളുന്നതിനോട് ഒരു പരിധിവരെ ആകർഷണം ഇപ്പോൾ തോന്നുന്നു ഈ ഘട്ടത്തിൽ തന്നെയാണ് കുട്ടിക്ക് ടോയ്ലറ്റ് പരിശീലനം നൽകപ്പെടുന്നത് പരിചരണം നൽകുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ പശ്ചാത്തലത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ എത്രത്തോളം സ്വീകാര്യനാണെന്ന് കുട്ടിയെ മനസ്സിലാക്കുന്നത് കൂടുതലും അമ്മയായിരിക്കും അടുത്തതായി മൂന്നാം ഘട്ടമായ ഫാലിക് ഘട്ടം വരുന്നു 3 മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള സമയം കാമോദ്ദീപകമായ മേഖല ഇപ്പോൾ സ്വകാര്യ ഭാഗത്തേക്ക് മാറുന്നു ഇത് കുഞ്ഞുങ്ങൾ സ്വകാര്യ ഭാഗങ്ങളെ ചുളിയ്ക്കുന്ന സമയമാണ് ഫ്രോയിഡ് പറയുന്ന രസകരമായ കാര്യം നിങ്ങൾ ലേറ്റൻസി ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നിശ്ചിത വർഷങ്ങൾക്ക് കാമോദ്ദീപകമായ മേഖല അപ്രത്യക്ഷമാകുമെന്നാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് സാമൂഹികവൽക്കരിക്കാനും വീട്ടിൽ നിന്ന് മാറാനും ഗ്രൂപ്പുകൾ രൂപീകരിക്കാനും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ലേറ്റൻസി ഘട്ടത്തിലേക്കും ജെനിറ്റൽ ഘട്ടത്തിലേക്കും കടക്കുന്നില്ല നമ്മൾ ഇവിടെ ആദ്യത്തെ 3 ഘട്ടങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് അതിനാൽ ഫാലിക് ഘട്ടത്തിൽ അദ്ദേഹം മൂന്ന് പ്രധാന നിർദ്ദേശങ്ങൾ നൽകി പ്രാഥമികമായി 2 കോംപ്ലക്സുകളെക്കുറിച്ച് സംസാരിക്കുന്നു ഈഡിപ്പസ് കോംപ്ലക്സിനെക്കുറിച്ചും ഇലക്ട്ര കോംപ്ലക്സിനെക്കുറിച്ചും അടിസ്ഥാനപരമായി ഈ രണ്ട് കോംപ്ലക്സുകളും ഒരേ പ്രതിഭാസങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഗ്രീക്ക് പുരാണ വിശദാംശങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുകൊണ്ട് 3 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടി എതിർലിംഗത്തിലുള്ള മാതാപിതാക്കളോട് അങ്ങേയറ്റം സ്നേഹം ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ ആൺ കുട്ടി അമ്മയോടുള്ള സ്നേഹം വളർത്തുകയും പെൺകുട്ടി പിതാവിനോടുള്ള ആകർഷണം വർദ്ധിപ്പിക്കുകയും ചെയ്യും ആൺ കുട്ടിക്ക് അമ്മയോട് അതിയായ അഭിനിവേശമുള്ളതിന് ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും പെൺകുട്ടി പിതാവിനോട് അങ്ങേയറ്റം സ്നേഹവും വാത്സല്യവും വളർത്തുന്നതിന് ഇലക്ട്ര കോംപ്ലക്സ് എന്നും അദ്ദേഹം പേരിട്ടു അടിസ്ഥാനപരമായി ഈ ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും പ്രാഥമികമായി ഒരേ കാര്യം പ്രതിനിധീകരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അതായത് എതിർലിംഗത്തിലുള്ള രക്ഷകർത്താവിനോടുള്ള അമിതമായ ആകർഷണമാണ് ഇത് ഫാലിക് ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ ഫാലിക് ഘട്ടത്തിൽ കുട്ടികൾ എല്ലായ്പ്പോഴും എതിർലിംഗത്തിലുള്ള മാതാപിതാക്കളോട് വളരെയധികം അഭിനിവേശമുള്ളവരാണ് എന്നാൽ ഫാലിക് ഘട്ടത്തിന്റെ അവസാനത്തോടെ ഈ തലത്തിലുള്ള സ്നേഹം ഭാഗികമായി പിൻവലിക്കാനുള്ള കഴിവ് കുട്ടി പ്രകടിപ്പിക്കുന്നു ഒപ്പം മറ്റെ രക്ഷിതാവിൽ വീണ്ടും നിക്ഷേപിക്കുകയും ചെയ്യും അതിനാൽ ഒരു ആൺകുട്ടിയെന്ന നിലയിൽ കുട്ടി ഇപ്പോൾ അമ്മയിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒരു ഭാഗം പിൻവലിക്കുകയും അച്ഛനിൽ വീണ്ടും നിക്ഷേപിക്കുകയും ചെയ്യും സാധാരണയായി ഫ്രോയിഡിയൻ വിശകലന പ്രകാരം സാധാരണയായി ഈ പിൻവലിയൽ പുനർനിക്ഷേപം മിക്ക കേസുകളിലും വിജയകരമാണ് ഇവയെല്ലാമാണ് വ്യത്യസ്ത തരം ലൈംഗിക ആഭിമുഖ്യം വികസിക്കുന്നതിനുള്ള പ്രാഥമിക മാർഗങ്ങൾ ഇപ്പോൾ അദ്ദേഹം പീനസ് എൻവിയെ കുറിച്ചും കാസ്ട്രേഷൻ ഉത്കണ്ഠയെക്കുറിച്ചും സംസാരിച്ചു അത് ഈഡിപ്പസ് കോംപ്ലക്സുമായി അദ്ദേഹം ബന്ധപ്പെടുത്തിയിരിക്കുന്നു അടിസ്ഥാനപരമായി അദ്ദേഹം പറയുന്നത് അമ്മയോട് പരമാവധി അഭിനിവേശമുള്ള ആൺകുട്ടിക്ക് അവന്റെ സ്വകാര്യ ഭാഗം കാസ്ട്രേറ്റ് ചെയ്യുമെന്നുള്ള കാര്യം തിരിച്ചറിയുമെന്നും ഇത് അവനിൽ ഉത്കണ്ഠയുണ്ടാക്കുമെന്നും ഫ്രോയിഡ് പറയുന്നു അതുപോലെ തന്നെ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ കാസ്ട്രേഷൻ ഉത്കണ്ഠയ്ക്ക് സമാന്തരമായിട്ട് പെൺകുട്ടിയിലുള്ളതാണ് പീനസ് എൻവി ആൺകുട്ടികൾക്ക് ഉള്ള സ്വകാര്യ ഭാഗം തനിക്ക് ഇല്ലെന്ന വസ്തുതയിൽ പെൺകുട്ടി അസൂയപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ ഇത് ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് നൽകിയ വിവരണമാണ് പ്രാഥമികമായി ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്നിവയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിക്കുമ്പോൾ മനസ്സിന്റെ അബോധാവസ്ഥയ്ക്ക് ഊന്നൽ നൽകുകയും തുടർന്ന് ആദ്യകാല ജീവിതാനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം അടുത്ത തവണ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പുതിയ ഫ്രോയിഡിയൻമാരെക്കുറിച്ചാണ് അതായത് ഫ്രോയിഡിയൻ കാഴ്ചപ്പാട് അംഗീകരിച്ചവർ പക്ഷേ അവർ അതിൽ കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ട്